ഒരു കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിൻറെ വസ്തുതകൾ I ഈ പ്രഭാഷണത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന കാന്തികക്ഷേത്രത്തിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു നമ്മുടെ കൈകളിലുള്ള ഉപകരണങ്ങൾ ഇവയാണ് ഒന്ന് ഡൈവർജൻസ് ഓഫ് B അതായത് കാന്തികമണ്ഡലം 0 ആയിരിക്കും അടുത്തതായി നമുക്ക് ഒരു ഓക്സിലിയറി ഫീൽഡ് H ഉണ്ട് അത് j free ക്ക് തുല്യമാണ് ഇവിടെ നമുക്ക് അധികമായി അറിയാവുന്ന വിവരം എന്തെന്നാൽ നമ്മൾ എല്ലായ്പ്പോഴും H നെ നിർവ്വചിച്ചിട്ടുള്ളത് B എന്നാൽ mu 0 മടങ്ങ് H പ്ലസ് M ആണെന്നാണ് ഒരു സ്വതന്ത്ര വൈദ്യുതധാര അഥവാ കാന്തികവൽക്കരണത്തിൻറെ B ലഭിക്കാൻ ഈ സമവാക്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് ചോദ്യം അതിനാൽ ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ ആശ്രയിച്ച് നമ്മൾ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം B എന്നാൽ mu 0 ഓവർ 4 പൈ ഇന്റഗ്രൽ d v പ്രൈം j r പ്രൈം ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ് എന്നാണ് വെക്റ്റർ ഫീൽഡിൽ നിന്നും ഇത് കണക്കാക്കാനാകും B0 Hjfree B0HM B04πdVjr×r rr r3 ഇപ്പോൾ നമുക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ നോക്കി കാന്തികക്ഷേത്രം കണക്കുകൂട്ടാൻ നമ്മുടെ മുൻ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം j free 0 ആയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എടുക്കുന്നുവെന്ന് കരുതുക അതിനാൽ j free പൂജ്യമാണെങ്കിൽ എനിക്ക് എല്ലായ്പ്പോഴും B യുടെ ഡൈവർജൻസ് പൂജ്യത്തിന് തുല്യമായിരിക്കും അതിനുപുറമെ എനിക്ക് H ന്റെ കേൾ പൂജ്യമാണ് B യുടെ ഡൈവർജൻസ് പൂജ്യമായതിനാൽ ഇത് H പ്ലസ് M ന്റെ ഡൈവർജൻസിനെ പൂജ്യത്തിലേക്ക് നയിക്കുന്നു ഇത് ഡൈവർജൻസ് H നെ മൈനസ് ഡൈവർജൻസ് M ന് തുല്യമാക്കുന്നു j free ആയ ഈ അവസ്ഥയ്ക്ക് എനിക്കിപ്പോൾ 2 സമവാക്യങ്ങൾ ഉണ്ട് curl H പൂജ്യത്തിനു തുല്യമാണെന്നും ഡൈവർജൻസ് H എന്നത് M ന്റെ മൈനസ് ഡൈവർജൻസിന് തുല്യമാണെന്നും കേൾ E പൂജ്യത്തിന് തുല്യമാണെന്നും ഡൈവർജൻസ് E എന്നാൽ rho ഓവർ എപ്സിലോൺ 0 എന്നതിന് തുല്യമാണെന്നതുമായ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ സമാനമായ അവസ്ഥയ്ക്ക് സമാനമാണ് ഇത് അതിനാൽ സ്വതന്ത്ര വൈദ്യുതധാര ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ അളവിനെ ഒരുതരം കാന്തിക ചാർജായി കണക്കാക്കാം ഈ അളവ് അതായത് H ൻറെ കേൾ പൂജ്യമാണ് അതിനാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഈ മൈനസ് ഡെൽ ഡോട്ട് M നെ ഞാൻ കാന്തിക ചാർജായി കണക്കിലെടുത്ത് അനുമാനിക്കുന്നു ഇതിനായി ഈ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എപ്സിലോൺ 0 ഉൾപ്പെടുത്താതെ H എഴുതുക എന്നതാണ് അത് 1 ഓവർ 4 പൈ ഇന്റഗ്രൽ മൈനസ് ഡെൽ പ്രൈം ഡോട്ട് M r പ്രൈo കാരണം അത് ഒരു ചാർജ് ആണ് അത് r മൈനസ് r പ്രൈം ക്യൂബ്ഡ് ദൂരത്താൽ ഹരിക്കുന്നു r മൈനസ് r പ്രൈം വെക്റ്റർ d v പ്രൈം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ എഴുതിയത്പോലെ ഇത് r എന്ന പോയിൻറ്ൽ ഉള്ള H ആണ് അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സമാനത ഉള്ള സാഹചര്യങ്ങളിൽ എനിക്ക് M ഡെൽ ഡോട്ട് M എന്നിവ എളുപ്പത്തിൽ കണക്കാക്കാം H കണക്കാക്കാൻ വളരെ എളുപ്പമാണ് Mrr r3r rdV നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം ഉദാഹരണം ഒന്ന് എനിക്ക് ഒരു നീണ്ട ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് കരുതുക അതിന്റെ നീളം L ഉം ആരം a യും ആണ് L എന്നത് a യെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൂടുതലാണ് അതിനാൽ ഫ്രിഞ്ച് ഇഫക്റ്റുകൾ എനിക്ക് അവഗണിക്കാം ഇത് അതിന്റെ നീളത്തിൽ ഒരു കാന്തികവൽക്കരണം M വഹിക്കുന്നു J free 0 ആയതിനാൽ എനിക്ക് H ന്റെ കേൾ 0 ആണ് H ന്റെ ഡൈവർജൻസ് M ന്റെ മൈനസ് ഡൈവേർജൻസിന് തുല്യമാണ് ഈ അവസ്ഥയിൽ M ന്റെ ഡൈവർജൻസ് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം jfree0 H0 M കാന്തികവൽക്കരണo M ന് അതിലുടനീളം നിശ്ചിത മൂല്യമുണ്ട് ഈ ദിശക്ക് പുറത്ത് 0 ആണ് അതിൻറെ മൂല്യം അതിനാൽ ഇതിൻറെ നിശ്ചിത മൂല്യം M ഉം ഇത് പൂജ്യവും ആണ് ഞാൻ ഈ ലംബമായി മുകളിലേക്കുള്ള ദിശ z ആയി എടുക്കുകയാണെങ്കിൽ M ന്റെ ഡൈവർജൻസിനെ മുകളിലെ പോയിന്റിൽ M ഡെൽറ്റ z ന് തുല്യമാണെന്നും താഴത്തെ പോയിന്റിൽ M ഡെൽറ്റ z ന് സമാനമാണെന്നും നിങ്ങൾക്ക് കാണാം നമുക്ക് ഇപ്പോൾ ചില മൂല്യങ്ങൾ ശരിയാക്കാം നമുക്ക് താഴെയുള്ള പോയിന്റ് z പൂജ്യത്തിന് തുല്യമായി എടുക്കാം നമുക്ക് മുകളിലെ പോയിന്റ് z L ന് തുല്യമായി എടുക്കാം ഇനി നമുക്ക് M ൻറെ ഡൈവർജൻസ് എഴുതാം താഴേക്ക് പോകുമ്പോൾ M ചെറുതാകുന്നു അതിനാൽ ഇത് മൈനസ് M ഡെൽറ്റ z മൈനസ് L പ്ലസ് ആണ് z പൂജ്യത്തിന് തുല്യം ആകുമ്പോൾ M വർദ്ധിക്കുന്നു അതിനാൽ ഇത് M ഡെൽറ്റ z എന്ന പദമായിരിക്കും M Mδz LMδ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി ഗോസിന്റെ നിയമംGauss's law ഉപയോഗിക്കാം അതിനായി ഞാൻ ഈ മുകളിലെ ഉപരിതലം എടുത്ത് ഇവിടെ ഒരു ചെറിയ പെട്ടി ഉണ്ടാക്കി ഇതിൽ ഡ്രൈവർജൻസ് ഓഫ് M dv കണ്ടുപിടിക്കാം താഴത്തെ ഉപരിതല വിസ്തീർണ്ണം a യും പെട്ടിയുടെ നീളം l ഉം ആണെങ്കിൽ ഇത് ഡ്രൈവർജൻസ് ഓഫ് M a l ആയിരിക്കുംഇവിടെ a l എന്നിവ വളരെ ചെറുതാണ് ഗോസിന്റെ സിദ്ധാന്തമനുസരിച്ച് ഇത് M ഡോട്ട് d s ന് തുല്യമാകും ഇപ്പോൾ മുകളിലെ ഉപരിതലത്തിൽ M ഇല്ല അതിനാൽ മുകളിലെ ഉപരിതലത്തിൽ നിന്ന് ഇത് നിങ്ങൾക്ക് 0 നൽകുന്നു താഴത്തെ ഉപരിതലത്തിൽ d s പുറത്തേക്ക് പോകുന്നു അതിനാൽ ഇത് മൈനസ് M a ആയിരിക്കും വശങ്ങളിലെ ഉപരിതലത്തിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതിനാൽ M ഉപരിതലത്തിന് സമാന്തരമാണ് അതിനാൽ എനിക്ക് ലഭിക്കുന്നത് M ന്റെ ഡൈവർജൻസ് മൈനസ് M ഓവർ l ന് തുല്യമാണെന്നാണ് Mal a and l are very smallM dS Ma M Ml ഈ l ൻറെ പരിധി നിങ്ങൾക്ക് 0 വരെ പോകാം അതിനാൽ ആ അവസ്ഥയിൽ ഇത് മൈനസ് M ഡെൽറ്റ z മൈനസ് L ആകുന്നു മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ d z എത്ര ചെറുതാണെങ്കിലും L മുതൽ L ഇന്റഗ്രൽ ഡൈവർജൻസ് M d z എന്നാൽ M ന് തുല്യമായിരിക്കും അതിനാൽ M ന്റെ ഈ ഡൈവർജൻസ് ഡെൽറ്റ z മൈനസ് L എന്നതിന് ആനുപാതികമായിരിക്കണം താഴത്തെ ഭാഗത്ത് നിങ്ങൾക്ക് അതേ കാര്യം ചെയ്യാൻ കഴിയും അതിനാൽ M ൻറെ ഈ ഡൈവർജൻസ് താഴെ ഒരു സ്പൈക്ക് പോലെയാണ് ഞാൻ ഇതിനെ ഒരു പർപ്പിൾ നിറത്തിൽ കാണിക്കുന്നു മുകൾ ഭാഗത്ത് അതായത് Z L നു തുല്യം ആകുമ്പോൾ ഇതുപോലുള്ള മൈനസ് ദിശയിലേക്കും ആയി ഞാൻ ഇവിടെ കാണിക്കുന്നു ഇവ രണ്ടും അനന്തതയിലേക്ക് പോകുന്നു അതിനാൽ അടുത്ത സ്ലൈഡിൽ നമുക്ക് വീണ്ടും നോക്കാം

നിങ്ങൾ വ്യക്തമായി കാണുന്നതിന് ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു ചിത്രം വരയ്ക്കാം കാന്തികത M കുറയുന്ന ഒരു നീണ്ട ബാർ കാന്തം ഉണ്ടെന്നു കരുതുക വീണ്ടും 0 വരെ താഴേക്ക് പോകുന്നുഅതിന്റെ ഡൈവർജൻസിന് ഇവിടെ ഈ ഡെൽറ്റ ഫംഗ്ഷനും ഇവിടെ ഡെൽറ്റ ഫംഗ്ഷനും ഉണ്ട് അതിനാൽ M ന്റെ മൈനസ് ഡൈവർജൻസ് എന്നാൽ M ഡെൽറ്റ z മൈനസ് L മൈനസ് M ഡെൽറ്റ z ന് തുല്യമായിരിക്കും ഇത് എന്തിനു തുല്യമാണ് ഇത് H ന്റെ ഡൈവർജൻസിന് തുല്യമാണ് അപ്പോൾ അത് M ഡെൽറ്റ z മൈനസ് L മൈനസ് M ഡെൽറ്റ z ന് തുല്യമായിരിക്കും കൂടാതെ H ന്റെ കേൾ 0 ആണെന്ന് എനിക്കറിയാം M മൈനസ് M എന്നിവ ഉപരിതല ചാർജ് പോലെയാണ് അതിനാൽ എനിക്ക് ഇവിടെ ഉള്ളത് ഈ കാന്തിക ബാർ കാന്തത്തിന്റെ മുകൾ ഭാഗത്ത് പോസിറ്റീവ് മാഗ്നെറ്റിക് ചാർജും താഴത്തെ ഭാഗത്ത് നെഗറ്റീവും ആണ് മുകളിലുള്ള ചാർജിൻറെ അളവ് M പൈ a സ്ക്വയറും താഴെയുള്ള ചാർജിൻറെ അളവ് മൈനസ് M പൈ a സ്ക്വയറും ആകുന്നു വടിയുടെ നീളം വളരെ വലുതായിരിക്കുന്നതിനാൽ വാസ്തവത്തിൽ അത് വളരെ നേർത്ത വടി പോലെയാണ് മുകളിലേക്കും താഴേക്കും ചെറിയ ചാർജുകൾ പോലെ ആയിരിക്കുന്നു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനാൽ ഉള്ളിൽ H ഏകദേശം 0 ആയിരിക്കും അതിനാൽ B mu 0 H പ്ലസ് M ന് തുല്യമാകുന്നു ഇത് mu 0 M അല്ലാതെ മറ്റൊന്നുമല്ല ഇത് നമ്മുടെ മുൻ കണക്കുകൂട്ടലിന് അനുസൃതമാണ് അവിടെ ഈ ബാർ മാഗ്നറ്റിനെ ഉപരിതല കറന്റ് k വഹിക്കുന്നതായി നമ്മൾ പരിഗണിച്ചു k എന്നാൽ മൈനസ് n ക്രോസ് M ആയിരുന്നു അത് ഫൈ ദിശയിൽ ഉള്ള M ആയിരുന്നു അതിനാൽ അത് ഒരു സോളിനോയിഡ് പോലെയായി അത് എനിക്ക് mu 0 M ന് തുല്യമായ ഒരു ഫീൽഡ് തന്നു ഇതു മുൻപു ചെയ്തതിന് തുല്യമാണ് പക്ഷേ നമ്മൾ മറ്റൊരു സാങ്കേതികത ഉപയോഗിക്കുന്നു അതായത് ഓക്സിലിയറി ഫീൽഡ് H ഉപയോഗിക്കുന്നു ഞാൻ അറിയപ്പെടുന്ന മറ്റൊരു ഉദാഹരണം പറയാം കാന്തികക്ഷേത്രത്തിന് ഇത് ഒരു നല്ല ഉദാഹരണമാണെന്ന് ഞാൻ പറയുന്നു ഈ ഉദാഹരണത്തിൽ z ദിശയിൽ കാന്തികവൽക്കരണമുള്ള ഈ കാന്തിക ഗോളം ഞാൻ എടുക്കും ഇതാണ് കാന്തികവൽക്കരണം M വീണ്ടും സ്വതന്ത്ര വൈദ്യുതധാര ഇല്ലാത്തതിനാൽ B യുടെ ഡൈവർജൻസ് 0 ആയിരിക്കുന്നു ഇത് എനിക്ക് H ന്റെ ഡൈവർജൻസിനെ M ന്റെ മൈനസ് ഡൈവർജൻസിന് തുല്യമാക്കുന്നു കൂടാതെ H ന്റെ കേൾ 0 ആകുന്നു അതിനാൽ M ന്റെ ഈ മൈനസ് ഡൈവർജൻസ് കാന്തിക ഉപരിതല ചാർജ് പോലെയാകുന്നത് നിങ്ങൾക്ക് കാണാനാകും അതെങ്ങനെ നമുക്ക് അത് നോക്കാം ഉപരിതലത്തിലേക്ക് നോക്കി ഒരു കോൺ തീറ്റയിൽ M ന്റെ കണക്കാക്കണമെങ്കിൽ ഇതുപോലുള്ള n ഉള്ള ഒരു ബോക്സ് വീണ്ടും ഇവിടെ ഉണ്ടാക്കുക അകത്ത് n മൈനസ് r ദിശയിലും M ഈ ദിശയിലുമാണ് ഒടുവിൽ 0 ലേക്ക് പോകുന്ന ബോക്സിന്റെ നീളം എടുക്കാൻ ഞാൻ പോകുന്നു അതിനാൽ ഞാൻ M d v യുടെ ഡൈവർജൻസ് കണക്കാക്കുമ്പോൾ ഇത് ഡൈവർജൻസ് സിദ്ധാന്തo അനുസരിച്ച് ഇന്റഗ്രൽ M ഡോട്ട് d s ന് തുല്യമാകും ഈ നീളം l 0 ലേക്ക് പോകുന്നതിനാൽ വശങ്ങളിലുള്ള പ്രതലങ്ങളിൽ നിന്ന് ഒരു സംഭാവനയും ഉണ്ടായിരിക്കുന്നതല്ല ഈ സാഹചര്യത്തിൽ ലംബമായ ഉപരിതലത്തിൽ M ന് ഘടകം ഉണ്ടെങ്കിലും നീളം 0 ആകും അതിനാൽ അവിടെ നിന്നുള്ള സംഭാവന 0 ആയിരിക്കും എനിക്ക് ലഭിക്കുന്ന ഒരേയൊരു സംഭാവന ആന്തരിക ഉപരിതലത്തിൽ നിന്നാണ് അവിടെ n അകത്തേക്ക് പോകുന്നു അതിനാൽ ഇത് മൈനസ് M കൊസൈൻ തീറ്റ a ആയി മാറുന്നു ഈ ബോക്സിന്റെ വിസ്തീർണ്ണം a ആണെങ്കിൽ r മൈനസ് എപ്സിലോൺ മുതൽ r പ്ലസ് എപ്സിലോൺ ഇന്റഗ്രൽ ഡൈവർജൻസ് M a തവണ dr എന്നാൽ അത് മൈനസ് M കൊസൈൻ തീറ്റ a ക്ക് തുല്യം ആയിരിക്കും ഇവിടെ രണ്ടുവശത്തും a ഒഴിവാക്കാം എപ്സിലോൺ എത്ര ചെറുതാണെങ്കിലും എനിക്ക് മൈനസ് M കൊസൈൻ തീറ്റ എന്ന ഒരു പരിമിത മൂല്യം ലഭിക്കുന്നു ഇതിൽ നിന്ന് M ൻറെ ഡൈവർജൻസ് തീറ്റയുടെ മൈനസ് M കൊസൈനു തുല്യമാണ് എന്ന് പറയാവുന്നതാണ്

a M Mcosθ അതിനാൽ r മൈനസ് R ഉപരിതലത്തിൽ എനിക്ക് തീറ്റയുടെ കൊസൈൻ എഴുതാൻ കഴിയും M Mcosθδ അതിനാൽ H ന്റെ ഡൈവർജൻസ് മൈനസ് ഡെൽ ഡോട്ട് M ന് തുല്യമാണെന്ന് എനിക്ക് എഴുതാൻ കഴിയും ഇത് M കോസ് തീറ്റ ഡെൽറ്റ r മൈനസ് R ആയിരിക്കും HMcosθδr R ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത് R ന് തുല്യമായ ചെറിയ r ൽ ഉപരിതലത്തിൽ ഉപരിതല ചാർജ് പോലെ മാറുന്നു മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും ആയതിനാൽ മുകളിൽ കൊസൈൻ തീറ്റ പോസിറ്റീവ് ആയിരിക്കും അതിനാൽമുകളിൽ ഇത് കൊസൈൻ തീറ്റ ആശ്രിതത്വത്തിന്റെ പോസിറ്റീവ് ചാർജും താഴെ കോസൈൻ തീറ്റ ആശ്രിതത്വത്തിനൊപ്പം നെഗറ്റീവ് ചാർജും പോലെ മാറുന്നു ഞാൻ H കണക്കാക്കുന്നു ഒരു ഉപരിതല ചാർജായി സിഗ്മ കോസിൻ തീറ്റ നൽകുന്ന z ദിശയിൽ ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്ന മുൻ പ്രശ്നം പോലെ ഇത് മാറുന്നു അതിനാൽ H ഈ ദിശയിലായിരിക്കും അതായത് z ദിശയ്ക്ക് എതിർവശത്തായി പിന്നെ എന്താണ് ഈ മൂല്യം H എന്നാൽ z ദിശയിൽ മൈനസ് M ഹരിക്കണം 3 ആണ് ഇവിടെ എപ്സിലോൺ 0 ഇല്ല ഈ z ദിശയിൽ അങ്ങനെ ഒന്നുമില്ല അതിനാൽ നമ്മൾ കണ്ടെത്തിയത് H എന്നത് മൈനസ് എം ഹരിക്കണം 3 എന്നാണ് B എന്നാൽ mu 0 H പ്ലസ് M ആയിരിക്കും ഇത് മൂന്നിൽ രണ്ട് mu 0 M ആയിത്തീരുന്നു ഇത് സൈൻ തീറ്റ ആശ്രിതത്വത്തോടുകൂടിയ ഉപരിതല പ്രവാഹം വഹിക്കുന്ന ഒരു ഗോളമായി കണക്കാക്കുന്നതിലൂടെ നമുക്ക് നേരത്തെ ലഭിച്ച ഉത്തരമാണ് അതിനാൽ ഈ പ്രഭാഷണത്തിൽ നിങ്ങൾ കാണുന്നത് സ്വതന്ത്ര വൈദ്യുതധാര ഇല്ലാത്ത കാന്തികവൽക്കരo മാത്രം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഉള്ള ബൌണ്ട് കാന്തിക ചാർജ് വഴി ഉണ്ടാകുന്ന ഒരു വൈദ്യുത മണ്ഡലം പോലെ എനിക്ക് H എന്ന സമവാക്യം ഡെൽ ഡോട്ട് M ന് തുല്യമായി എഴുതാൻ കഴിയും എനിക്ക് കൂടുതൽ മുന്നോട്ടു പോയാൽ ഡെൽ ഡോട്ട് H എന്നാൽ മൈനസ് ഡെൽ ഡോട്ട് M ആയിരിക്കുന്ന ഇത്തരം അവസരങ്ങളിൽ ഡെൽ ക്രോസ് H 0 ആണെന്ന് എഴുതാൻ ആകും ഡെൽ ക്രോസ് എച്ച് 0 ആണെങ്കിൽ എനിക്ക് ഉടൻ തന്നെ ഒരു കാന്തിക പൊട്ടൻഷ്യൽ ഉള്ള ഫൈ M നെ നിർവചിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം അതിനാൽ H നെ മൈനസ് ഗ്രാഡ് ഓഫ് ഫൈ M ന് തുല്യമായി എഴുതാവുന്നതാണ് അത് എനിക്ക് ഡെൽ സ്ക്വയർ ഫൈ M തരുന്നത് ഡെൽ M ന് തുല്യമായാണ് ഇത് പോയ്സന്റെ ഫൈ മാഗ്നറ്റിക് സമവാക്യമാണ് അതിൽനിന്ന് എനിക്ക് ബൌണ്ടറി കണ്ടീഷൻ പരിഹരിക്കാൻ കഴിയും തുടർന്ന് എനിക്ക് H ലഭിക്കും H ൽ നിന്ന് എനിക്ക് B ലഭിക്കും H M H0H M 2M M